കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ ചർച്ച ചെയ്ത സുസ്ഥിരത പ്രശ്നം നാം മനസ്സിലാക്കണം ഉൽപ്പന്നത്തിന്റെ വികാസത്തിൽ വ്യത്യസ്ത മാർഗങ്ങളുണ്ട് ഒരു ഉൽപ്പന്നത്തിന്റെ നിർമ്മാണം അത് വ്യത്യസ്ത രീതികളിൽ ചെയ്യാൻ കഴിയും ഒരു ഉൽപ്പന്നത്തിന്റെ സുസ്ഥിര വികസനത്തിനുള്ള പരിഗണനകളിൽ ലീൻ പ്രൊഡക്ഷൻ സിസ്റ്റം സ്വീകരിക്കണം കുറഞ്ഞ സമയത്ത് വികസിപ്പിച്ചെടുത്ത ഉയർന്ന നിലവാരമുള്ള വിലകുറഞ്ഞ ഉൽപ്പന്നം നമുക്ക് ലഭിക്കേണ്ടതുണ്ട് മെലിഞ്ഞ പരിഗണനയിൽ പരിസ്ഥിതിയിലേക്ക് മാലിന്യ നിർമാർജനം കുറയുന്നുവെന്ന് ഉറപ്പുവരുത്തുക ലീൻ ഉൽപാദന പ്രക്രിയ അല്ലെങ്കിൽ ലീൻ ഉൽപാദന പ്രക്രിയയിൽ മാലിന്യങ്ങൾ കുറയ്ക്കുക എന്നതാണ് പ്രധാന പരിഗണന ലീൻ ആശയം അടിസ്ഥാനപരമായി ജപ്പാനിലാണ് തുടങ്ങിയത് പ്രമുഖ ആഗോള വാഹന നിർമാതാക്കളായ ടൊയോട്ട എന്നറിയപ്പെടുന്നു തുടക്കത്തിൽ തന്നെ നേട്ടങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അവരുടെ കമ്പനിക്കുള്ളിൽ മാത്രമാണ് ഇത് ചെയ്തത് ഇത് ആഗോളതലത്തിൽ പ്രചാരത്തിലായി വ്യത്യസ്ത ഉത്പന്നങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ വ്യവസായങ്ങളിൽ ദത്തെടുക്കാൻ തുടങ്ങി അവസാനം നിങ്ങൾക്ക് ഉയർന്ന ഗുണനിലവാരമുള്ള ഒരു ഉൽപ്പന്നം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് വളരെ ജനപ്രിയമായിത്തീർന്നു കുറഞ്ഞ സമയം കൊണ്ട് ഉൽപാദിപ്പിക്കപ്പെടുന്നു കൂടാതെ കുറഞ്ഞ മാലിന്യങ്ങൾ ഉപയോഗിച്ച് ഉൽപാദിപ്പിക്കപ്പെടുന്നു എല്ലാത്തരം മാലിന്യങ്ങളും വ്യക്തമായ മാലിന്യങ്ങൾ മാത്രമല്ല സമയം പാഴാക്കൽ മനുഷ്യ വിഭവങ്ങളുടെ പാഴാക്കൽ എന്നിവ ഉയർന്ന ഗുണമേന്മയുള്ള ഉൽപന്നങ്ങളുള്ള ലാഭം മെച്ചപ്പെടുത്തുക കുറഞ്ഞ സമയത്തിനുള്ളിൽ വിഭവങ്ങളുടെ പാഴാക്കൽ ഉപയോഗിച്ച് ഉൽപാദിപ്പിക്കുക എന്നതാണ് സുസ്ഥിരതയുടെ മൊത്തത്തിലുള്ള ലക്ഷ്യം ലീൻ ഉത്പാദനം സുസ്ഥിരതയുടെ ഈ മൊത്തത്തിലുള്ള പ്രശ്നത്തിന് സംഭാവന നൽകുന്നു അപ്പോൾ ഈ ലീൻ ഉൽപാദന സംവിധാനം എന്താണ് പ്രക്രിയകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഇല്ലാതാക്കുക ഉൽപാദന വ്യവസായങ്ങളിലെ ഉൽപാദന പ്രക്രിയകൾ ഉദാഹരണത്തിന് ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവയെക്കുറിച്ചാണ് അതിനാൽ അതിന്റെ ഉത്ഭവം ടൊയോട്ട മോട്ടോർ കോർപ്പറേഷൻ കമ്പനിയിലാണ് ഈ ടിപിഎസ് അല്ലെങ്കിൽ ലീൻ ഉൽപാദന സംവിധാനം പ്രധാനമായും ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾ നേരിട്ട് പരിഹരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇത് ഈ ലീൻ ഉൽപാദന പ്രക്രിയയുടെ താക്കോലാണ് ഉപഭോക്താവിന് ആവശ്യമുള്ളതെന്തും വിഭവങ്ങളുടെ അമിതമായ ഉപയോഗം ഇല്ലാതാക്കുക എല്ലാത്തരം മാലിന്യങ്ങളും ഇല്ലാതാക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഉപയോഗിക്കുക ഒടുവിൽ സമയം കുറയ്ക്കുന്നതിലും ഉയർന്ന ഗുണമേന്മയുള്ളതിലും ഉപഭോക്താവ് അടിസ്ഥാനപരമായി സംതൃപ്തരാകുന്ന ഒരു നന്മ ഉത്പാദിപ്പിക്കുക ലീൻ സമീപനവും മറ്റ് സമീപനങ്ങളും തമ്മിലുള്ള താരതമ്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലീൻ സമീപനം അടിസ്ഥാനപരമായി ഉപഭോക്താക്കളുടെ കാഴ്ചപ്പാടിലാണ് അതേസമയം മറ്റ് സമീപനങ്ങൾ അടിസ്ഥാനപരമായി ചുമതലയിലും ഉൽപാദന വീക്ഷണത്തിലും നോക്കുന്നു അതിനാൽ ലീനും അല്ലാത്തതുമായ സമീപനങ്ങൾ തമ്മിലുള്ള ഈ അടിസ്ഥാന വ്യത്യാസം ഈ ലീൻ ഉൽപാദന സംവിധാനത്തിന് അടിസ്ഥാനപരമായി രണ്ട് വ്യത്യസ്ത തരം സംവിധാനങ്ങളുടെ പരിഗണനകളുണ്ട് ഒന്ന് ജിഡോക ആണ് അത് മെഷീനുകൾ അല്ലെങ്കിൽ പ്രക്രിയയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോഴെല്ലാം അതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഉത്പാദനം നിർത്തുക എന്നിട്ട് തകരാറുള്ള ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് നിർത്തുക അതിനാൽ ഇതാണ് ജിഡോക പ്രക്രിയ തുടർച്ചയായ ഒഴുക്കിൽ ഓരോ പ്രക്രിയയും അടുത്ത പ്രക്രിയയ്ക്ക് കൃത്യമായി ആവശ്യമുള്ളത് ഉത്പാദിപ്പിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനെക്കുറിച്ച് അടിസ്ഥാനപരമായി സംസാരിക്കുന്നു JIT അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ ടൈം ഹ്രസ്വ രൂപമാണ് ഇത് JIT എന്നും അറിയപ്പെടുന്നു അതിനാൽ ഓരോ പ്രക്രിയയും തുടർച്ചയായ ഒഴുക്കിൽ അടുത്ത പ്രക്രിയയ്ക്ക് ആവശ്യമായത് ഉത്പാദിപ്പിക്കുന്നു പിപിഎസ് ടൊയോട്ട ഉൽപാദന സംവിധാനം പോലുള്ള ഈ മെലിഞ്ഞ ഉൽപാദന പ്രക്രിയയുടെ മറ്റ് ഘടകങ്ങളുണ്ട് വിവിധ തരം മാലിന്യങ്ങൾ ഉണ്ട് കൂടാതെ ഈ മാലിന്യങ്ങൾ പരമാവധി കുറയ്ക്കേണ്ടതുണ്ട് ഈ മാലിന്യങ്ങൾ ഗതാഗത മാലിന്യങ്ങളാണ് ഇത് വസ്തുക്കളിൽ നിന്നോ വിവരങ്ങളിൽ നിന്നോ ആളുകളുടെ അമിതമായ ചലനത്തെക്കുറിച്ച് ആണ് ഇത് അടിസ്ഥാനപരമായി നിഷ്ക്രിയത്വത്തിന്റെ കാലഘട്ടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മെറ്റീരിയൽ അല്ലെങ്കിൽ വിവരങ്ങൾ വരാനോ ഉപയോഗിക്കാനോ ഉള്ള ആളുകളെക്കുറിച്ചാണ് തൊഴിലാളികൾ എന്തെങ്കിലും വരാൻ കാത്തിരിക്കുന്നതും സമയം പാഴാകുന്നതും സംഭവിക്കരുത് അതിനാൽ ഈ കാത്തിരിപ്പ് കുറയ്ക്കേണ്ടതുണ്ട് മാലിന്യത്തിന്റെ മൂന്നാമത്തെ രൂപം ചലനമാണ് ഇത് ആളുകളുടെ മൂല്യവർദ്ധിതമല്ലാത്ത ചലനമാണ് ഫാക്ടറിക്ക് അകത്ത് ഫാക്ടറിക്ക് പുറത്ത് ഒരേ ഫാക്ടറിയുടെയോ സ്ഥാപനത്തിന്റെയോ വിവിധ സ്ഥലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വ്യത്യസ്ത സംഘടനകൾക്കിടയിലോ ഉള്ള അനാവശ്യ ചലനം എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ തരത്തിലുള്ള ചലനം മാത്രമായിരിക്കണം മൂല്യവർദ്ധിതമല്ലാത്ത ചലനം കുറയ്ക്കണം അസംസ്കൃത വസ്തുക്കൾ ജോലി പുരോഗമിക്കുന്നു പൂർത്തിയായ സാധനങ്ങൾ തുടങ്ങിയ സാധനങ്ങളുടെ വിലയാണ് ഇൻവെന്ററി മാലിന്യങ്ങൾ ഇവയെല്ലാം ഏത് സാധനസാമഗ്രികൾ വേണമെങ്കിലും ഉപയോഗിക്കണം അനാവശ്യമായ ഇൻവെന്ററികൾ നിർമ്മിച്ച് സംഭരിക്കരുത് ഓവർ പ്രോസസ്സിംഗ് ഉൽപ്പന്നത്തിൽ കൂടുതൽ ജോലി ചെയ്യുക തുടർന്ന് ഉപഭോക്താവ് എന്ത് മൂല്യം കണ്ടെത്തുന്നു അതിനാൽ ഉപഭോക്തൃ മൂല്യങ്ങൾ ഉപഭോക്താവിന് കൃത്യമായി എന്താണ് വേണ്ടതെന്ന് സംസാരിക്കുന്നു കൂടാതെ ഉൽപാദന സംവിധാനം ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനെക്കുറിച്ച് മാത്രം സംസാരിക്കണം ഉപഭോക്താവിന് ആവശ്യമായ കൃത്യമായ ഉൽപ്പന്നമോ സേവനമോ ഉത്പാദിപ്പിക്കുന്നത് ഇതാണ് ചെയ്യേണ്ടത് കൂടാതെ ഉപഭോക്താവിന് ആവശ്യമില്ലാത്ത വ്യത്യസ്ത സവിശേഷതകളുള്ള നിങ്ങൾക്ക് അറിയാവുന്ന ഉൽപ്പന്നത്തിനായി കൂടുതൽ പ്രോസസ്സ് ചെയ്യുന്നത് കൂടുതൽ പ്രോസസ് ചെയ്യുന്നു ഉൽപ്പന്നത്തിലോ സേവനത്തിലോ പ്രക്രിയയിലോ പേപ്പർ വർക്കുകളിലോ വൈകല്യങ്ങൾ ഉപഭോക്താക്കളുടെ ആവശ്യത്തേക്കാൾ വേഗത്തിൽ കൂടുതൽ ഉൽപന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്നു അതും കുറയ്ക്കണം അതിനാൽ ഇവയാണ് ഏഴ് വ്യത്യസ്ത രൂപത്തിലുള്ള മാലിന്യങ്ങൾ മൊത്തത്തിലുള്ള ലീൻ സിസ്റ്റം ഈ മൂല്യ സ്ട്രീമുകളെക്കുറിച്ച് സംസാരിക്കുന്നു ഉപഭോക്താവിന്റെ ഓർഡർ മുതൽ ഉപഭോക്താവിന് ഉൽപ്പന്നം എത്തിക്കുന്നതുവരെ ഒരു ഉൽപ്പന്നത്തിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും മൂല്യ സ്ട്രീമുകളാണ് മാത്രമല്ല ഇത് ഉൽപ്പന്നം മാത്രമല്ല സേവനവും ആകാം അതിനാൽ ഉൽപ്പന്നത്തിന്റെ ഓർഡർ അല്ലെങ്കിൽ സേവനം മുതൽ ഉൽപ്പന്നത്തിന്റെ ഡെലിവറി വരെ വാല്യൂ സ്ട്രീം അടിസ്ഥാനപരമായി സംസാരിക്കുന്നത് സേവനത്തെക്കുറിച്ചാണ് മൂന്ന് തരം കൃതികളുണ്ട് ഒന്ന് മൂല്യവർദ്ധിതമാണ് ഇവ വ്യത്യസ്തമാണ് ഇത് മൂല്യ പ്രവാഹത്തിലേക്ക് ചേർക്കുന്ന വളരെ അഭികാമ്യമാണ് അപ്പോൾ ശുദ്ധമായ മാലിന്യങ്ങൾ അഭികാമ്യമല്ല മൂല്യ ധാരകളിൽ അഞ്ച് ചുവടുകളുണ്ട് ഒരു നേതൃത്വ ടീം രൂപീകരിക്കുന്നതിൽ ഒരൊറ്റ മൂല്യ സ്ട്രീമിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വളരെ അഭികാമ്യമാണ് ഓരോന്നിനും കൃത്യമായ തീയതിയും സമയവും ഷെഡ്യൂൾ ചെയ്യുക കൂടാതെ ഉപഭോക്താവിന് ആവശ്യമുള്ളതെല്ലാം അതിലൂടെ നടക്കുക അതായത് ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾ കൃത്യമായ ഉപഭോക്തൃ ആവശ്യകതകൾ എല്ലാ ഉപഭോക്താക്കളുമായും ഒരുമിച്ച് നടക്കുന്നവരുടെ മൂല്യം ഉപഭോക്താവിനൊപ്പം ലിസ്റ്റിംഗ് ആശയങ്ങൾക്ക് മുൻഗണന നൽകൽ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുക ഉപഭോക്താവിന് മൂല്യം വാഗ്ദാനം ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ ഷെഡ്യൂൾ ഫോളോ അപ്പ് അവസാനത്തേതാണ് മൂല്യ ധാരകളിലെ അഞ്ച് ജോലികൾ ഇവയാണ് ഇൻഡസ്ട്രി 4 0 ന്റെ പശ്ചാത്തലത്തിൽ ലീൻ ഉത്പാദനം പരമപ്രധാനമാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ലീൻ ഉത്പാദനം നാല് വ്യത്യസ്ത പരിഗണനകളെക്കുറിച്ച് സംസാരിക്കുന്നു പ്ലാന്റിലെ മനുഷ്യരുടെ സംയോജനം തുടർച്ചയായ ഇൻപുട്ട് മെച്ചപ്പെടുത്തൽ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾ പ്രക്രിയകളിലെ മാലിന്യങ്ങൾ തിരിച്ചറിയൽ പരിസ്ഥിതി സൌഹാർദ്ദപരമായി കഴിയുന്നത്ര വേഗത്തിൽ അവ ഇല്ലാതാക്കൽ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ ഈ ലീൻ ഉൽപാദന സമ്പ്രദായം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നതിൽ ലീൻ ഉൽപാദന സംവിധാനത്തിന്റെ സ്വാധീനം കുറഞ്ഞ നിരക്കിൽ ഉത്പാദിപ്പിക്കുന്ന ഏറ്റവും കുറഞ്ഞ ഗുണമേന്മയുള്ള ഉൽപന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു ലീൻ ഉപയോഗിച്ചുള്ള ഉൽപാദനത്തിന്റെ മൂന്ന് വ്യത്യസ്ത പ്രത്യാഘാതങ്ങൾ ഇവയാണ് ലീൻ നടപ്പാക്കൽ സമ്പൂർണ്ണ നിർമ്മാണ സംവിധാനം നടപ്പിലാക്കുന്നതിലേക്ക് നയിക്കുന്നു ഇത് മെലിഞ്ഞ ഉപകരണങ്ങൾ സ്വീകരിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നാൽ ബിസിനസ്സ് ആവശ്യകതകൾ പ്രവർത്തനം മെച്ചപ്പെടുത്തൽ എല്ലാത്തിന്റെയും പ്രവർത്തനം യന്ത്രങ്ങളുടെ പ്രവർത്തനം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നത്തിന്റെ പ്രവർത്തനം പ്രക്രിയകളുടെ പ്രവർത്തനം എന്നിങ്ങനെയുള്ള മറ്റ് വ്യത്യസ്ത മേഖലകളിലും ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിനാൽ മൊത്തത്തിലുള്ള ഉൽപാദന പ്രക്രിയ മൊത്തത്തിലുള്ള ഉൽപാദന പ്രക്രിയയുടെ ഉൽപാദന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മാനേജ്മെന്റ് പ്രകടന ഭരണം അതിനാൽ ലീൻ നടപ്പാക്കലിന് വ്യത്യസ്ത ആവശ്യകതകളുണ്ട് ആദ്യം ബിസിനസ്സ് ആവശ്യകതകൾ ശരിയായ ലക്ഷ്യങ്ങൾ സജ്ജമാക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഒരു ബിസിനസ്സ് കാഴ്ചപ്പാടിൽ നിന്ന് തന്ത്രം പൂർണ്ണമായും മായ്ക്കുക ബിസിനസ് തന്ത്രം വ്യക്തമാക്കണം രണ്ടാമതായി ലീൻ നടപ്പാക്കലിന്റെ കാര്യത്തിൽ പ്രകടന മാനേജ്മെന്റ് അളവ് ഇവിടെ സംസാരിക്കുന്നത് ആളുകളുടെ മാനേജ്മെന്റിനെക്കുറിച്ചാണ് വിലയിരുത്തുന്നതിന് വ്യത്യസ്ത KPI കളുടെ ഉപയോഗം കെപിഐകൾ എന്നാൽ പ്രധാന പ്രകടന സൂചകങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത് ഉൽപാദന പ്രക്രിയയിലെ പ്രകടനം വിലയിരുത്തുന്നതിന് ഈ വ്യത്യസ്ത കെപിഐകൾ ഉപയോഗിക്കുക ഉത്പാദനക്ഷമത ചരക്കുകളുടെയും ഉൽപന്നങ്ങളുടെയും ഗുണനിലവാരം ഡെലിവറി ചെലവ് ഉൽപാദനച്ചെലവ് ഡെലിവറി സമയം സുരക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പ്രകടനം അളക്കാൻ KPI കളുടെ ഉപയോഗത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നു ലീൻ ഉൽപാദന സംവിധാനത്തിലെ ഒരു പ്രകടന മാനേജ്മെന്റ് കാഴ്ചപ്പാടിൽ നിന്ന് പരിഗണിക്കേണ്ട വ്യത്യസ്ത പ്രകടന ഗുണവിശേഷങ്ങൾ അല്ലെങ്കിൽ KPI കൾ ഇവയാണ് പ്രവർത്തന മെച്ചപ്പെടുത്തലിന് എല്ലാ ഉപകരണങ്ങളെക്കുറിച്ചും വ്യക്തമായ അറിവ് ഉണ്ടായിരിക്കണം കൂടാതെ അനാവശ്യമായ ഉപകരണങ്ങളുള്ള വലിയ ടൂൾബോക്സ് ഉണ്ടായിരിക്കരുത് എല്ലാ വ്യത്യസ്ത വിഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ പാഴാക്കുന്നത് കുറയ്ക്കുക മൊത്തത്തിൽ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക ലീൻ ഉൽപാദനത്തിന്റെ മറ്റൊരു മാനം അടിസ്ഥാനപരമായി ആളുകളുടെ ഇടപെടലാണ് ഈ പേര് പറയുന്നതുപോലെ അടിസ്ഥാനപരമായി ആളുകൾ നിരന്തരമായ പങ്കാളികൾ എല്ലാവരും ഇടപഴകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഈ വ്യത്യസ്ത ലക്ഷ്യങ്ങൾ പഠിക്കുക ചെയ്യുക പഠിപ്പിക്കുക പഠിക്കുക എന്നാൽ ഉപകരണങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് ഉണ്ടായിരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് എന്നാൽ നിർവ്വഹിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ഉപകരണങ്ങളും ലഭ്യമായ എല്ലാ ഉപകരണങ്ങളിലും പ്രവർത്തിക്കുകയും ഈ വ്യത്യസ്ത ഉപകരണങ്ങളെക്കുറിച്ച് ഒരു അധ്യാപകന്റെ റോളിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ മൂന്ന് ആളുകളെയും ഈ മൂന്ന് വ്യത്യസ്ത ദിശകളിൽ ഇടപഴകുന്നതും വളരെ പ്രധാനമാണ് ഇത് അടിസ്ഥാനപരമായി തുടക്കം മുതൽ സംസാരിക്കുന്നു അടിസ്ഥാനപരമായി ചെലവ് കുറയ്ക്കാനും ഉൽപാദന സമയം ഗുണനിലവാരം മെച്ചപ്പെടുത്താനും നിർമ്മാണ പ്രക്രിയയിൽ മൊത്തത്തിലുള്ള തുടർച്ചയായ പുരോഗതിക്കും തുടർച്ചയായ പുരോഗതിക്കും സംഭാവന നൽകും നമുക്ക് ഇപ്പോൾ മറ്റൊരു ദിശയിൽ നിന്ന് നോക്കാം സമഗ്രമായി എന്താണ് ലീൻ ലീൻ ഉൽപാദന സമ്പ്രദായത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ലീൻ ഉൽപാദന സമ്പ്രദായം ലീൻ നിർമ്മാണം ലീൻ ഉൽപാദന രീതികൾ സ്വീകരിക്കുക മൊത്തത്തിലുള്ള ഗുണനിലവാരം ഉറപ്പുവരുത്തുക മൊത്തത്തിലുള്ള ഉൽപാദനം മെച്ചപ്പെടുത്തുന്നതിന് പരിഹാരങ്ങൾ സ്വീകരിക്കുക സമയം കുറയ്ക്കുക എല്ലാം മെച്ചപ്പെടുത്തുക വ്യത്യസ്ത യന്ത്രങ്ങളുടെ വെർച്വൽ സംയോജനം ലീൻ വിതരണ ശൃംഖല സാധനങ്ങളുടെ ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങളെ ഔട്ട്സോഴ്സ് ചെയ്യാൻ കഴിയുന്നത്ര ആവശ്യമെങ്കിൽ അത് വിലകുറഞ്ഞതാണെങ്കിൽ ആ ഘടകങ്ങൾ വികസിപ്പിക്കുന്നതിൽ കൂടുതൽ വൈദഗ്ധ്യമുള്ള ചില വിദഗ്ദ്ധർക്ക് വേഗത്തിൽ ചെയ്യാൻ കഴിയും ജസ്റ്റ് ഇൻ ടൈം ആശയങ്ങൾ സ്വീകരിക്കുന്നതിനും വഴങ്ങുന്ന നിർമ്മാണത്തിനും മുമ്പ് ഞാൻ ഇതിനകം സൂചിപ്പിച്ച മറ്റൊന്നാണ് ജസ്റ്റ് ഇൻ ടൈം ലീൻ ഉൽപാദന പ്രക്രിയയുടെ ലീൻ ഉൽപാദന സംവിധാനത്തിന്റെ വ്യത്യസ്ത ഘടകങ്ങളാണ് ഇവ അതിനാൽ ലീൻ ഉൽപാദന സമ്പ്രദായം ലീൻ ഉൽപാദന പ്രക്രിയ ലീൻ ഉൽപാദനം എന്നിവയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉൾക്കൊള്ളുന്ന എന്തിനെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന റഫറൻസ് ഇതാ